മാഗ്നെറ്റിക് ഫീൽഡിന്റെ വെക്റ്റർ പൊട്ടൻഷ്യൽ ഇതിനു മുൻപുള്ള ക്ലാസ്സിൽ നമ്മൾ ആംപിയേർസ് നിയമത്തിന്റെ ഇന്റഗ്രൽ ഫോമിനെകുറിച്ച് പറഞ്ഞിരുന്നു മാത്രമല്ല ചില സമമിതി പ്രശ്നങ്ങളിൽ മാഗ്നെറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ആംപിയേർസ് നിയമത്തിന്റെ ഇന്റഗ്രൽ ഫോം ഉപയോഗിച്ചു അവിടെ നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച ഒരു ചോദ്യം നമുക്ക് മാഗ്നെറ്റിക് ഫീൽഡ് കാരണമുള്ള മാഗ്നെറ്റിക് പൊട്ടൻഷ്യൽ നിർവചിക്കാൻ പറ്റുമോ എന്നായിരുന്നു ഈ ക്ലാസ്സിൽ നമ്മൾ അതിനാണ് ശ്രമിക്കുന്നത് ഇലക്ട്രിക്ക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചപ്പോൾ E 0 എന്ന ഇക്വേഷനിൽ നിന്നും ഇലക്ട്രിക്ക് പൊട്ടൻഷ്യൽ നിർവചിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഇലക്ട്രിക്ക് ഫീൽഡിന്റെ കാര്യത്തിൽ ഗ്രേഡിയന്റ് ന്റെ കേൾ എടുത്താൽ എപ്പോഴും സീറോ ആയിരിക്കുമെന്നതുകൊണ്ടുതന്നെ നമുക്ക് E V എന്നെഴുതാൻ സാധിക്കും കാരണം ഇതിന്റെ കേൾ എടുത്താൽ സീറോ ലഭിക്കും ഇതിനോട് സമാനമായി മാഗ്നെറ്റിക് ഫീൽഡിന്റെ കാര്യത്തിൽ നമുക്ക് എന്ന സമവാക്യം എടുക്കാം ഇതിൽ നിന്നും നമുക്ക് കാണിക്കാവുന്നതാണ് ഒരു വെക്ടർ അഥവാ സദിശത്തിന്റെ കേൾ എടുത്ത് അതിന്റെ ഡൈവേർജൻസ് കണ്ടാൽ അത് സീറോ ആയിരിക്കുമെന്ന് അപ്പോൾ എന്ന ഇക്വേഷനിലെ എന്നെഴുതാൻ സാധിക്കും അപ്പോൾ നമുക്ക് പറയാൻ കഴിയും B യെ മറ്റൊരു വെക്റ്റർ ഫീൽഡ് A യുടെ കേൾ ആയി എഴുതാവുന്നതാണെന്ന് ഇവിടെ A യെ വെക്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നു ഇലക്ട്രിക്ക് ഫീൽഡിൽ നമുക്ക് V എന്ന സ്കേലാർ പൊട്ടൻഷ്യൽ ലഭിച്ചിരുന്നു ഇതിനെ നമ്മൾ പിന്നീട് ചെയ്ത വർക്ക് അഥവാ പ്രവൃത്തി എന്ന രീതിയിലും എടുത്തു മാഗ്നെറ്റിക് ഫീൽഡിൽ ഇതിനെ വെക്റ്റർ പൊട്ടൻഷ്യൽ ആയി എടുത്തു ഇതിന്റെ കേൾ എടുത്താൽ മാഗ്നെറ്റിക് ഫീൽഡ് ലഭിക്കുമെന്നും നമ്മൾ കണ്ടു ഇലക്ട്രിക്ക് ഫീൽഡിൽ V എന്നത് ഒരു കോൺസ്റ്റന്റിനുള്ളിൽ എന്ന പോലെ നിർവചിക്കപ്പെട്ടിരിക്കുന്നു ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ V എന്ന് എടുത്താലും V കോൺസ്റ്റന്റ് എന്നെടുത്താലും ഇതിൽ നിന്നും ലഭിക്കുന്നത് ഒരേ ക്വാണ്ടിറ്റി തന്നെയായിരിക്കും അതായത് ഇലക്ട്രിക്ക് ഫീൽഡ് തന്നെയായിരിക്കും ലഭിക്കുക ഇതുപോലെ തന്നെ മാഗ്നെറ്റിക് ഫീൽഡ് B നെ A എന്നോ A എന്നോ എഴുതാവുന്നതാണ് കാരണം 0 അതായത് ഗ്രേഡിയന്റിന്റെ കേൾ എപ്പോഴും സീറോ ആയിരിക്കും അപ്പോൾ A നെ ഒരു സ്കേലാർ ഫീൽഡ് ന്റെ ഗ്രേഡിയന്റിനുള്ളിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഇലക്ട്രിക്ക് പൊട്ടൻഷ്യൽ V ന് ഒരു കോൺസ്റ്റന്റിനുള്ളിൽ വരുന്ന ആർബിട്രേറി സ്വഭാവം ഉള്ളതുപോലെ ഇവിടെ മാഗ്നെറ്റിക് പൊട്ടൻഷ്യലിനും സ്കേലാർ ഫീൽഡ് ന്റെ ഗ്രേഡിയന്റിനുള്ളിൽ വരുന്ന ഒരു ആർബിട്രേറി സ്വഭാവം ഉണ്ട് A യുടെ ഭൌതികപരമായ വ്യാഖ്യാനം എന്താണ് അഥവാ A എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇലക്ട്രിക്ക് ഫീൽഡിൽ പൊട്ടൻഷ്യൽ എന്നതുകൊണ്ട് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ ഫീൽഡിൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് നീക്കാൻ ചെയ്യപ്പെടുന്ന പ്രവൃത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് മാഗ്നെറ്റിക് പൊട്ടൻഷ്യലിന് ഒരു നിർവചനം കണ്ടെത്താൻ സാധിക്കുമോ ഇതിനുത്തരം കാണുക അത്ര എളുപ്പമല്ല എന്നാൽ A യുടെ ഡയമെൻഷൻ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇതിനെകുറിച്ച് കൂടുതലായി അറിയാൻ കഴിയും A യുടെ കേൾ എടുത്താൽ B ലഭിക്കുമല്ലോ അതായത് A B അപ്പോൾ A യുടെ ഡയമെൻഷൻ B യുടെ ഡയമെൻഷൻ ഗുണം ലെങ്ത് ആണ് അതായത് A B L ആയിരിക്കും നമുക്കറിയാം qvB F ആണെന്ന് അപ്പോൾ B F qv ഇത് A യുടെ ഡയമെൻഷൻ കാണാനുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിട്യൂട്ട് ചെയ്താൽ A F L q v എന്നാൽ L v യ്ക്ക് ടൈമിന്റെ ഡയമെൻഷൻ ആണ് അപ്പോൾ A F T q അഥവാ A q F T നമുക്കറിയാം F T യ്ക്ക് മൊമെന്റ്റത്തിന്റെ ഡയമെൻഷൻ ആണെന്ന് അതായത് A q വിന് മൊമെന്റ്റത്തിന്റെ ഡയമെൻഷൻ ആണെന്നർത്ഥം ഇത് സാധാരണ അർത്ഥത്തിൽ നമ്മളുദ്ദേശിക്കുന്ന പാർട്ടിക്കിളിന്റെ മൊമെന്റ്റവുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പ്രത്യേകം ഓർക്കണം പിന്നീട് നമുക്ക് ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചർച്ച ചെയ്യാം അടുത്തതായി നമ്മൾ ചില ഉദാഹരണങ്ങൾ എടുത്ത് മാഗ്നെറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം ഉദാഹരണം 1 അനന്തമായി നീണ്ടുകിടക്കുന്ന വൈദ്യുതി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പി എടുക്കാം ഇത്തരം ഒരു കമ്പിയിൽ കൂടിയുള്ള വൈദ്യുതപ്രവാഹം കാരണം ഇതിനു ചുറ്റും വർത്തുളാകൃതിയിൽ ഒരു മാഗ്നെറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ടെന്നു നമ്മൾ നേരത്തെ കണ്ടു അപ്പോൾ s അകലത്തിലുള്ള മാഗ്നെറ്റിക് ഫീൽഡ് ഇവിടെ ഉള്ളത് സിലിണ്ടറിക്കൽ സമമിതി അഥവാ സിലിണ്ട റിക്കൽ സിമെട്രി ആയതു കൊണ്ട് ഞാൻ കേൾ കാണുന്നതും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ഉപയോഗിച്ച് തന്നെ ചെയ്യാം ഇവിടെ നമുക്ക് 𝜙 കംപോണേന്റ് മാത്രമെ ആവശ്യമുള്ളൂ എന്നതിനാൽ നേരത്തെ കിട്ടിയ ഇക്വേഷൻ അനുസരിച്ച് ഇത് 0 I 2 s ന് തുല്യമാണ് അപ്പോൾ അതിനർത്ഥം നമുക്ക് എന്നെടുക്കാവുന്നതാണെന്നാണ് ഇങ്ങനെ എടുക്കുമ്പോൾ B യ്ക്ക് നേരത്തെ കിട്ടിയ 0 I 2 s എന്ന റിസൾട്ട് ലഭിക്കുന്നതാണ് അതുകൊണ്ട് അനന്തമായി നീണ്ടുകിടക്കുന്ന വൈദ്യുതി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പി സങ്കല്പിച്ചാൽ ഇതുകാരണമുള്ള മാഗ്നെറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ അടുത്തതായി ഉദാഹരണം 2 നമുക്ക് ഒരു സമമായ മാഗ്നെറ്റിക് ഫീൽഡ് B എടുക്കാം ഇവിടെ നമ്മളിവിടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് Z കംപോണേന്റ് ആണ് ആവശ്യമായുള്ളത് ആദ്യം നമുക്ക് ഇതിന്റെ XY Z കംപോണന്റുകൾ എഴുതാം

ഇതിൽ Z കംപോണേന്റ് ആണ് നമുക്കാവശ്യം Z കംപോണേന്റ്B z നോട് തുല്യമാണ് അതായത് ഇവിടെ 3 സാദ്ധ്യതകളാണുള്ളത് ഒന്നാമത്തേത് ഇതിൽ നിന്നും ഇതിനെ നമുക്ക് എന്ന് എടുക്കാവുന്നതാണ് രണ്ടാമത്തെ സാധ്യത അപ്പോൾ മൂന്നാമത്തെ സാദ്ധ്യത അപ്പോൾ ഇങ്ങനെ A മൂന്നു രീതിയിൽ എടുത്താലും ലഭിക്കുന്ന B ഒരേ പോലെ ആയിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഇവ തമ്മിലുള്ള വ്യത്യാസം ഒരു ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ മറ്റൊരു ക്വാണ്ടിറ്റിയുടെ ഗ്രേഡിയന്റ് മാത്രമായിരിക്കും നമുക്കിവിടെ രണ്ടു പ്രത്യേക സന്ദർഭങ്ങൾ നോക്കാം A യുടെ നേരത്തെ കിട്ടിയ 3 ഇക്വേഷനിൽ നിന്നും രണ്ടെണ്ണം നമുക്കെടുക്കാം ഇത് അനുസരിച്ച് അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായിരിക്കുന്നത് രണ്ട് മാഗ്നെറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ തമ്മിലുള്ള വ്യത്യാസം സദിശ മണ്ഡലം അഥവാ സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ആയിരിക്കുമെന്നുതന്നെയാണ് അടുത്ത ഉദാഹരണം നോക്കാം ഉദാഹരണം 3 ഇവിടെ നമുക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു പരന്ന ഷീറ്റ് കാരണമുള്ള വെക്റ്റർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം ഇവിടെ സർഫേസ് കറന്റ് K K y എന്നിരിക്കട്ടെ ചിത്രത്തിൽ X Y ദിശകൾ ഷീറ്റിന്റെ പ്രതലത്തിന് സമാന്തരമായും Z ദിശ ഷീറ്റിനു ലംബമായി പുറത്തേക്കുള്ള ദിശയിലും കാണിച്ചിട്ടുണ്ട് മാഗ്നെറ്റിക് ഫീൽഡ് നമുക്കിവിടെ A കണ്ടുപിടിക്കാം ലഭിക്കുന്ന A നേരത്തെ പറഞ്ഞ ഫീൽഡ് ഉണ്ടാക്കുന്നതായിരിക്കണം A യുടെ X കംപോണേന്റ് എടുത്താൽ ഇതിൽ നിന്നും എനിക്ക് പറയാൻ കഴിയും എന്നോ അല്ലെങ്കിൽ B യുടെ വാല്യൂ ശരിയായി വരുന്ന മറ്റേതെങ്കിലും കോമ്പിനേഷനോ എടുക്കാവുന്നതാണെന്ന് എന്നിട്ട് വ്യത്യസ്ത A യുടെ വിലകൾ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ നേരത്തെ കിട്ടിയതുപോലെ സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയൻറ് ലഭിക്കും